നമസ്കാരം സർവീസ് മാർക്കറ്റിംഗ് വിത്ത് എ പ്രാക്ടിക്കൽ അപ്രോച്ചിന്റെ ഈ സെഷനിലേക്ക് സ്വാഗതം ഇപ്പോ പാഠം 26 അതായത് മാനേജിങ് ഡിമാൻഡ് ആൻഡ് കപ്പാസിറ്റി ഭാഗം 2 ചർച്ച ചെയ്യാം ഇതിൽ യീൽഡ് മാനേജ്മെന്റും വെയ്റ്റിംഗ് ലൈൻ സ്ട്രാറ്റജീസും ഉൾപ്പെടുന്നു നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയതുപോലെ ഒരു സേവന ബിസിനസ്സ് നേരിടുന്ന ഡിമാൻഡ് കപ്പാസിറ്റി പൊരുത്തക്കേടുകൾ ഉണ്ടാകാം കപ്പാസിറ്റിവിനിയോഗം വിലനിർണ്ണയം വിപണി വിഭജനം സാമ്പത്തിക വരുമാനം എന്നിവ സന്തുലിതമാക്കാനുള്ള ഒരു മാർഗ്ഗം യീൽഡ് അല്ലെങ്കിൽ വരുമാന മാനേജ്മെന്റ് ആണ് ഈ രീതി വരുമാനം പരമാവധിയാക്കാൻ ശ്രമിക്കുന്നു അവിടെ വരുമാനം യഥാർത്ഥ വരുമാനം സാധ്യതയുള്ള വരുമാനം സമ്പൂർണ്ണ ശേഷിയുടെയും ഒരു യൂണിറ്റ് ശേഷിക്ക് ഈടാക്കാവുന്ന പരമാവധി വിലയുടെയും ഗുണനഫലമാണ് സാധ്യതയുള്ള വരുമാനം എന്നിരുന്നാലും ഒരു നിശ്ചിത വിലയ്ക്ക് വാടകയ്ക്ക് നൽകാവുന്ന യഥാർത്ഥ ശേഷിയുടെ ഉത്പന്നമാണ് യഥാർത്ഥ വരുമാനം ഇനിപ്പറയുന്ന ഉദാഹരണം ഉപയോഗിച്ച് ആശയം വ്യക്തമാക്കാം 250 സീറ്റുകളുള്ള ഒരു സിനിമാ തിയേറ്റർ പരിഗണിക്കുക അവിടെ ഒരു സീറ്റ് പരമാവധി 200 രൂപയ്ക്ക് വിൽക്കാം എന്നിരുന്നാലും തിയേറ്റർ സീറ്റുകൾ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ 200 രൂപ വെച്ച് 100 സീറ്റുകൾ മാത്രമാണ് വിൽക്കുന്നത് ബാക്കി സീറ്റുകൾ വിൽക്കപ്പെടാതെ കിടക്കുന്നു ഈ സാഹചര്യത്തിൽ യഥാർത്ഥ വരുമാനത്തിന് തുല്യമായ വരുമാനം 100 ഗുണം 200 ഹരിക്കണം 250 ഗുണം 200 അതായത് 40 വരുമാനം 100×200 250×200 40 ഇപ്പോൾ എല്ലാ സീറ്റുകളും 75 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുമെന്ന് തിയേറ്റർ കണ്ടെത്തുന്നു ഈ സാഹചര്യത്തിൽ വിളവ് 250 ഗുണം 75 ഹരിക്കണം 250 ഗുണം 200 അതായത് 37 വരുമാനം 250×75 250 ×200 37 ഇപ്പോൾ നമുക്ക് 100 സീറ്റുകൾ 200 രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിക്കാം ബാക്കി 150 സീറ്റുകൾക്ക് 75 രൂപ നിരക്കിൽ ഇളവ് ഈ സാഹചര്യത്തിൽ വരുമാനംലഭിക്കും ഈ സാഹചര്യത്തിൽ വരുമാനംഎന്ന് പറയുന്നത് വരുമാനം 100 × 200 150 × 75 250 × 200 62 5 100 ഗുണം 200 അധികം 150 ഗുണം 75 ഹരിക്കണം 250 ഗുണം 200 സമം 62 5 ശതമാനം ഒരു സീറ്റിന്റെ പരമാവധി വില നൽകാൻ തയ്യാറാകാത്ത ഉപഭോക്താക്കളുടെ ഒരു വിഭാഗത്തിന് ചില സീറ്റുകൾ പരമാവധി വിലയിലും മറ്റു ചില സീറ്റുകൾ ഡിസ്കൌണ്ട് വിലയിലും അനുവദിക്കുന്നതിലൂടെ വരുമാനം40 ൽ കൂടുതൽ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഈ വിധത്തിൽ വരുമാനംമാനേജ്മെന്റ് ആശയം പ്രയോഗിക്കുന്നത് കപ്പാസിറ്റി വിനിയോഗം വില വിഭജനം സേവന ബിസിനസിൽ നിന്നുള്ള വരുമാനംഎന്നിവ സന്തുലിതമാക്കാൻ നമ്മളെ അനുവദിക്കുന്നു ഇപ്പോൾ വെയ്റ്റിംഗ് ലൈൻ തന്ത്രങ്ങളിലേക്ക് വരുന്നു സേവന വിതരണത്തിനായി കാത്തിരിക്കേണ്ടിവരുമ്പോൾ ഉപഭോക്താക്കൾ അസംതൃപ്തരാണെന്ന് 2007 ൽ ബീലനും ഡെമോലിനും എഴുതി മാത്രമല്ല നിങ്ങളുടെ കാത്തിരിപ്പ് ദൈർഘ്യമേറിയതും അസഹനീയവുമായിത്തീർന്നാൽ നിങ്ങളുടെ ബിസിനസിന് ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ടേക്കാം ഉപഭോക്തൃ കാത്തിരിപ്പിനെ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് 4 തന്ത്രങ്ങൾ ഉപയോഗിക്കാം ഈ തന്ത്രങ്ങൾ ഇനിപ്പറയുന്ന ഖണ്ഡികകളിൽ ചർച്ച ചെയ്യുന്നു പ്രവർത്തന യുക്തി പ്രയോഗിക്കുക ഉപഭോക്തൃ കാത്തിരിപ്പ് സാധാരണമാണെങ്കിൽ സേവന സംവിധാനത്തിന്റെ പ്രവർത്തന യുക്തി ഉപഭോക്താക്കളെ ആവശ്യത്തിലധികം കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് വിശകലനം ചെയ്യുക എന്നതാണ് ആദ്യ പടി ഉദാഹരണത്തിന് സെയ്താമും സഹപ്രവർത്തകരും അവരുടെ സേവന മാർക്കറ്റിംഗ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു ബാങ്ക് ഉപഭോക്താക്കൾക്ക് നീണ്ട ക്യൂ ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ ചോദ്യങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ ഉത്തരം നൽകാൻ അനുവദിക്കുന്നതിനായി ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപഭോക്തൃ വിവര സംവിധാനം വികസിപ്പിച്ചെടുത്തു ഒരു ഇലക്ട്രോണിക് ക്യൂ സംവിധാനം നടപ്പാക്കി പീക്ക് ടൈം ടെല്ലർമാരെ നിയമിച്ചു അതിന്റെ സമയം വിപുലീകരിക്കുകയും ഉപഭോക്താക്കൾക്ക് ഇതര ഡെലിവറി ചാനലുകൾ നൽകുകയും ചെയ്തു ക്യൂ നിൽക്കുന്നത് അനിവാര്യമാകുമ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ 3 തരം വെയിറ്റിംഗ് ലൈൻ കോൺഫിഗറേഷനുകൾ ഉപയോഗിക്കാം അതിനാൽ ഒന്നിലധികം ക്യൂകൾ ഒറ്റ ക്യൂ ഒരു നമ്പർ എടുക്കുക എന്നിങ്ങനെ മൂന്ന് തലങ്ങളുണ്ട് അതിനാൽ ഒന്നിലധികം ക്യൂകളിൽ ഒന്നിലധികം സെർവറുകൾ ഉണ്ട് കൂടാതെ ഒരു പ്രത്യേക സെർവറിൽ എത്തുന്നതിനായി ഒന്നിലധികം ക്യൂകൾ കാണപ്പെടുന്നു ഒന്നിലധികം ക്യൂകൾ ഒരൊറ്റ ക്യൂ മാത്രം കണ്ടെത്താനാകുമ്പോൾ ഒറ്റ ക്യൂവിലുള്ള ഈ വ്യക്തിക്ക് ആ സമയത്ത് സേവിക്കാത്ത ഏതെങ്കിലും സെർവറുകളിലേക്ക് നീങ്ങാൻ കഴിയും ഒരു നമ്പർ എടുക്കുക ഇവിടെ ആളുകൾ വന്ന് ഒരു ഓട്ടോമാറ്റിക് നമ്പർ ഡിസ്ചാർജിംഗ് ബോക്സിൽ നിന്ന് ഒരു നമ്പർ എടുക്കുന്നു അവരുടെ നമ്പർ ഫ്ലാഷ് ആകുന്നതുവരെ അവർ കാത്തിരിക്കുന്നു തുടർന്ന് അവർ ഒരു പ്രത്യേക സെർവറിൽ എത്തുന്നു അതിനാൽ ഇതിനെ ടേക്ക് എ നമ്പർ എന്ന് വിളിക്കുന്നു അങ്ങനെ 3 വെയിറ്റിംഗ് ലൈൻ കോൺഫിഗറേഷനുകൾ ഉണ്ട് 2003 ൽ പ്രസിദ്ധീകരിച്ച ജൌവു സോമാൻ എന്നിവരുടെ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു ഉപഭോക്താവ് ക്യൂവിൽ തുടരാനുള്ള സാധ്യത ആ ഉപഭോക്താവിന്റെ പിന്നിലുള്ള ക്യൂവിന്റെ ദൈർഘ്യത്തിൽ നേരിട്ട് വ്യത്യാസപ്പെടുന്നു എന്നാണ് ഒരു റിസർവേഷൻ പ്രക്രിയയിൽ ഏർപ്പെടുക ഉദാഹരണത്തിന് ഒരു ട്രെയിനിലെ റിസർവേഷൻ പ്രക്രിയയെക്കുറിച്ച് നിങ്ങൾ ഇതിനകം അറിഞ്ഞിരിക്കാം അവസാന നിമിഷം റദ്ദാക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാത്തതിനാൽ ഒരു ഫ്ലൈറ്റ് പൂർണ്ണ ശേഷിയിൽ കുറവോടെ പുറപ്പെടേണ്ടതുണ്ടോ എന്ന് ഒരു സേവന ദാതാവിന് സംശയമുണ്ടെങ്കിൽ അവർക്ക് ഓവർ ബുക്കിംഗ് അവലംബിക്കാം ഓവർ ബുക്കിംഗിന്റെ കാര്യത്തിൽ ഓവർ ബുക്ക് ചെയ്ത യാത്രക്കാരന് ഓവർബുക്ക് സ്റ്റാറ്റസ് അറിയാം കൂടാതെ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ഫ്ലൈറ്റിൽ സീറ്റ് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകാം കാത്തിരിക്കുന്ന ഉപഭോക്താവിനെ വ്യത്യസ്തമാക്കുക സാധാരണ ക്യൂ അച്ചടക്കം ആദ്യം വരുന്നവർക്ക് ആദ്യം നൽകുന്നു എന്ന രീതിയാണ് എന്നിരുന്നാലും ചില ഉപഭോക്താക്കൾക്ക് വ്യത്യസ്തമായ വ്യത്യസ്ത രീതികൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുമ്പ് സേവനം നൽകാൻ കഴിയും ഉപഭോക്താവിന്റെ പ്രാധാന്യം ഇതിൽ ഉൾപ്പെടുന്നു സേവന ദാതാവിനൊപ്പം കൂടുതൽ ബിസിനസ്സ് നടത്തുന്ന ഉപഭോക്താക്കൾ ബിസിനസിന് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു കൂടാതെ വ്യത്യസ്ത ക്യൂ ഉപയോഗിച്ച് സേവനം നൽകാനും കഴിയും ജോലിയുടെ അടിയന്തിരം മറ്റുള്ളവർ ചെയ്യുന്നതിനു മുമ്പ് അടിയന്തിര രോഗികൾ ശ്രദ്ധിക്കപ്പെടുന്നു സേവന ഇടപാടുകളുടെ ദൈർഘ്യം താരതമ്യേന ചെറിയ ഇടപാടുകൾ നീണ്ട ഇടപാടുകൾക്ക് മുമ്പായി നൽകുന്നു പ്രീമിയം വില പ്രീമിയം വില നൽകാൻ തയ്യാറായ ഉപഭോക്താക്കൾക്ക് മറ്റുള്ളവർക്ക് മുമ്പേ സേവനം നൽകുന്നു കാത്തിരിപ്പിനെ ആനന്ദകരമാക്കുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് സഹിക്കാവുന്നതോ ആക്കുക 1985 ൽ ഡേവിഡ് മേസ്റ്റർ വെയിറ്റിംഗ് ലൈനുകളുടെ മനശാസ്ത്രം "The Psychology of Waiting Lines" എന്ന പേരിൽ കാത്തിരിപ്പിനെക്കുറിച്ചുള്ള വിവിധ തത്ത്വങ്ങൾ വിച്ഛേദിക്കുന്ന ഒരു ക്ലാസിക് ലേഖനം എഴുതി ഓരോന്നിനും ഓർഗനൈസേഷനുകൾക്ക് കാത്തിരിപ്പിനെ കൂടുതൽ സന്തോഷകരമോ കുറഞ്ഞത് സഹിക്കാവുന്നതോ ആക്കി മാറ്റാൻ കഴിയുന്നതിന് പ്രത്യാഘാതങ്ങളുണ്ട് തത്വങ്ങൾ ഇപ്രകാരമാണ് ആളില്ലാത്ത സമയം അധിനിവേശ സമയത്തേക്കാൾ ദൈർഘ്യമേറിയതായി അനുഭവപ്പെടുന്നു അതിനാൽ കാത്തിരിക്കുമ്പോൾ സേവനം സൃഷ്ടിക്കുന്നതിൽ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തുക പ്രീ പ്രോസസ് കാത്തിരിപ്പുകൾ പ്രോസസ്സ് കാത്തിരിപ്പിനെക്കാൾ കൂടുതൽ അനുഭവപ്പെടുന്നു മറ്റ് ലൈൻ വേഗത്തിൽ നീങ്ങുമോ എന്ന് ആശങ്കപ്പെടുന്ന ഉപഭോക്താക്കളെ നീക്കം ചെയ്യുക അറിയപ്പെടുന്ന പരിമിതമായ കാത്തിരിപ്പിനേക്കാൾ കൂടുതൽ അനിശ്ചിതമായ കാത്തിരിപ്പ് നീണ്ടു നിൽക്കും ഉപഭോക്താക്കൾക്ക് എത്ര സമയം കാത്തിരിക്കണമെന്ന് അറിയില്ലെങ്കിൽ അവർക്ക് കാത്തിരിക്കേണ്ട സമയത്തിന്റെ ദൈർഘ്യം അറിയുമ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഉത്കണ്ഠയും അസംതൃപ്തിയുമാണ് വിശദീകരിക്കാത്ത കാത്തിരിപ്പുകൾ കാത്തിരിപ്പിനെക്കാൾ ദൈർഘ്യമേറിയതാണ് അന്യായമായ കാത്തിരിപ്പുകൾ ന്യായമായ കാത്തിരിപ്പിനെക്കാൾ ദൈർഘ്യമേറിയതാണ് സേവനം കൂടുതൽ വിലപ്പെട്ടത് ആകുമ്പോൾ ഉപഭോക്താവ് കൂടുതൽ സമയം കാത്തിരിക്കാൻ തയ്യാറാകും ഏകാന്തമായ കാത്തിരിപ്പുകൾക്ക് ഗ്രൂപ്പ് കാത്തിരിപ്പിനേക്കാൾ കൂടുതൽ സമയം അനുഭവപ്പെടുന്നു വിതരണവും ഡിമാൻഡും പൊരുത്തപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങളും വരുമാനം മാനേജ്മെന്റ് എന്ന ആശയവും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കാത്തിരിപ്പിനെ ആനന്ദകരമാക്കുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് സഹനീയമാക്കുന്നതോ ആയ തത്വങ്ങൾ ഉൾപ്പെടെ വിവിധ കാത്തിരിപ്പ് തന്ത്രങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അടുത്ത പാഠത്തിൽ സേവന വിതരണവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ പി നമ്മൾ ചർച്ച ചെയ്യും അതാണ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഭൌതിക തെളിവുകളുടെ മാനേജ്മെന്റ് ഈ പാഠം കേട്ടതിന് നന്ദി ഇത് ഉപകാരപ്രദമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു